കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടു വശത്തും മിറർ ഘടിപ്പിച്ച ഒരു ക്യാവിറ്റി സങ്കൽപ്പിച്ചിരുന്നു ഈ മിററിന്റെ റിഫ്ലക്റ്റിവിറ്റി R1 R2 എന്നും പറഞ്ഞു രണ്ടു മിററുകൾക്കിടയിലുള്ള ക്യാവിറ്റിയിൽ കൂടെ പ്രകാശം മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കുന്നു അവിടെ നമ്മൾ കണ്ടിരുന്നു അതായത് അഥവാ ഉയർന്ന എനർജി ലെവലിന്റെയും താഴ്ന്ന എനർജി ലെവലിന്റെയും ആറ്റങ്ങളുടെ നമ്പർ ഡെൻസിറ്റി തമ്മിലുള്ള വ്യത്യാസം ln√σL നേക്കാൾ കൂടുതലാണെങ്കിൽ ക്യാവിറ്റിയിൽ നിന്നും ഈ വശത്തു കൂടെയോ മറുവശത്തുകൂടെയോ പുറത്തേക്കു വരുന്ന ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഇവിടെ L എന്നതാണ് ക്യാവിറ്റിയുടെ നീളം ഇങ്ങനെ ഒരു അവസ്ഥ എങ്ങനെയാണ് സംജാതമാക്കപ്പെടുന്നത് കാരണം ബോൾട്സ്മാൻ ഫോർമുല അനുസരിച്ച് നിങ്ങൾക്കറിയാം N 2 എന്നത് ഉയർന്ന എനർജി ലെവെലിലുള്ള ആറ്റങ്ങളുടെ എണ്ണം N1 എന്നത് താഴ്ന്ന എനർജി ലെവെലിലുള്ള ആറ്റങ്ങളുടെ എണ്ണം ഇതേ എനർജി ലെവെലിലുള്ള നമ്പർ ഡെൻസിറ്റി ആണ് n 2 n1 എന്നിവ e EkT ഒന്നിനേക്കാൾ കുറവായിരിക്കും അതിനർത്ഥം താപം വർദ്ധിപ്പിക്കുന്നത് വഴി ഒരിക്കലും n 2 n1 ആക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് അതായത് ടെമ്പറേച്ചർ ഉയർത്തുന്നത് വഴി ഒരിക്കലും n 2 വിനെ n1 നേക്കാൾ കൂടുതലാക്കാൻ പറ്റില്ല എന്ന നിഗമനത്തിൽ എത്തിച്ചേരുന്നു അപ്പോൾ മറ്റെന്തെങ്കിലും മാർഗം കൈക്കൊള്ളണം അതാണ് നാം ഇവിടെ ലേസറിൽ അവലംബിക്കുന്നത് സ്റ്റിമുലേറ്റഡ് എമിഷൻ കാരണം ബഹിർഗമിക്കുന്ന ലൈറ്റിന് ഈ എമിഷനുണ്ടാവാൻ കാരണമായ റേഡിയേഷൻ ന്റെ അതെ സ്വഭാവം തന്നെ ആയിരിക്കും അതായത് ബഹിർഗമിക്കുന്ന ഫോട്ടോണിന് ഈ എമിഷനുണ്ടാവാൻ കാരണമായ ഫോട്ടോണിന്റെ അതെ സ്വഭാവം തന്നെ ആയിരിക്കും അതായത് ഈ ലൈറ്റിന് പ്രത്യേക സ്വഭാവവിശേഷം ഉണ്ടായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സിന്റെ അവസാനം വിശദമായി ചർച്ച ചെയ്യാം ഇപ്പോൾ നമ്മൾ തത്കാലം n2 n1 എന്ന കണ്ടീഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന കാര്യം ചർച്ച ചെയ്യാം ഇത് ലേസർ ആക്ഷൻ അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ ഇവയെകുറിച്ചുള്ള ഒരു ചെറിയ മുഖവുര മാത്രമാണ് കൂടുതലായി അറിയാൻ നിങ്ങൾക്ക് ഇതിനെകുറിച്ച് പ്രതിപാദിക്കുന്ന നൂതന പുസ്തകങ്ങൾ നോക്കാവുന്നതാണ് അപ്പോൾ ഇത്തരം കണ്ടീഷൻ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് നോക്കാം ഒരു രണ്ടു ലെവൽ മാത്രമുള്ള സിസ്റ്റത്തിൽ ഒരിക്കലും n2 n1 എന്ന കണ്ടീഷൻ നേടിയെടുക്കാൻ സാധ്യമല്ല കാരണം കൂടുതൽ കൂടുതൽ ആറ്റങ്ങളെ ഉയർന്ന ലെവലിലേക്ക് പമ്പ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ആറ്റങ്ങൾ താഴേക്കു പതിക്കുന്നു അതുകൊണ്ടുതന്നെ n2 n1 എന്ന സ്ഥിതിവിശേഷം ഒരിക്കലും സംജാതമാക്കാൻ സാധ്യമല്ല അതായത് രണ്ട് ലെവൽ മാത്രമുള്ള സിസ്റ്റത്തിൽ ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്നർത്ഥം അതുകൊണ്ടുതന്നെ നമ്മൾ രണ്ടു ലെവൽ എന്നതിന് പകരം അല്പം കൂടുതൽ ലെവലുകളുള്ള സിസ്റ്റം എടുക്കേണ്ടതായി വരും അതായത് 3 അല്ലെങ്കിൽ നാല് ലെവലുകളുള്ള സിസ്റ്റം ആണ് വേണ്ടത് അപ്പോൾ ലേസർ ഡിസൈൻ ചെയ്യുന്നതിന് ഇപ്രകാരം രണ്ടിലധികം എനർജി ലെവലുകളുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുക്കേണ്ടതായി വരും മെറ്റീരിയലിന് ഏതൊക്കെ പ്രോപ്പർട്ടി ആണ് വേണ്ടതെന്ന് പറയാം ഒരു 3 ലെവൽ സിസ്റ്റം സങ്കല്പിക്കാം ഇത് ഒന്നാമത്തെ ലെവൽ ഇത് രണ്ടാമത്തെ ലെവൽ ഇത് മൂന്നാമത്തെ ലെവൽ ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ സിസ്റ്റത്തിലേക്ക് ഒന്നാമത്തെയും മൂന്നാമത്തെയും എനർജി ലെവൽ തമ്മിലുള്ള വ്യത്യാസത്തിന് തുല്യമായ ഫ്രീക്വൻസിയിലുള്ള ലൈറ്റ് നൽകുകയാണ് അപ്പോൾ ധാരാളം അറ്റങ്ങൾ ഒന്നാമത്തെ ലെവലിൽ നിന്നും ഉത്തേജിക്കപ്പെട്ട് മൂന്നാമത്തെ ലെവലിലെത്തുന്നു ഉയർന്ന എനർജി ലെവെലിലെത്തിയ ഉടൻ തന്നെ വളരെ വേഗത്തിൽ ഫോട്ടോൺ ഉത്സർജ്ജിച്ച് ലെവൽ 2 വിലേക്ക് പതിക്കുന്ന രീതിയിലുള്ള എനർജി ലെവലുകളാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് അതായത് ലെവൽ 3 യുടെ ലൈഫ് ടൈം അതായത് ലെവൽ 3 യിൽ നിന്നും ലെവൽ 2 വിലേക്കുള്ള ശോഷണത്തിനുള്ള ലൈഫ് ടൈം വളരെ കുറവായിരിക്കണം അതോടൊപ്പം ലെവൽ 2 വിൽ നിന്നും 1 ലേക്കുള്ള ലൈഫ് ടൈം വളരെ കൂടുതലാകണം അതായത് 2 വിൽ നിന്നും 1 ലേക്കുള്ള ശോഷണ പ്രക്രിയ വളരെ മെല്ലെ ആയിരിക്കണമെന്നർത്ഥം അതായത് ലെവൽ 3 യുടെ 3 യിൽ നിന്നും 2 ലേക്കുള്ള ശോഷണത്തിന്റെ ലൈഫ് ടൈം ലെവൽ 2 വിന്റെ 2 വിൽ നിന്നും 1 ലേക്കുള്ള ശോഷണത്തിന്റെ ലൈഫ് ടൈം അപേക്ഷിച്ച് വളരെ കുറവായിരിക്കണം തത്ഫലമായി എന്താണ് സംഭവിക്കുന്നത് ലെവൽ 1 ൽ നിന്നും ലെവൽ 3 യിലേക്ക് ഉത്തേജിക്കപ്പെടുന്ന അറ്റങ്ങൾ ഉടനെ തന്നെ ലെവൽ 2 വിലേക്ക് പതിക്കുന്നു എന്നാൽ ലെവൽ 2 വിൽ നിന്നും സാവധാനമാണ് ശോഷണം നടക്കുന്നത് അതായത് ലെവൽ 1 ൽ ആറ്റങ്ങൾ കുറഞ്ഞു വരികയും അഥവാ ധാരാളം ആറ്റങ്ങൾ മുകളിലേക്ക് പമ്പ് ചെയ്യപ്പെടുകയും തത്ഫലമായി n2 n1 എന്ന സ്ഥിതിവിശേഷം സംജാതമാകയും ചെയ്യുന്നു തെർമൽ അവസ്ഥയിൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിന്റെ നേരെ വിപരീത അവസ്ഥ ഇവിടെ സംജാതമാകുന്നതിനാൽ n2 n1 എന്ന അവസ്ഥയെ പോപ്പുലേഷൻ ഇൻവെർഷൻ എന്ന് വിളിക്കുന്നു കാരണം സാധാരണ കണ്ടു വരുന്ന പോപുലേഷന്റെ നേരെ വിപരീത അവസ്ഥയാണിത് 3 മറ്റൊരു സാധ്യത 4 എനർജി ലെവലുകളാണ് ഇവിടെ 1 23 4 എന്നിങ്ങനെ ലേബൽ ചെയ്ത 4 എനർജി ലെവലുകളുണ്ട് ഇനി പമ്പ് ചെയ്ത് ആറ്റങ്ങളെ ലെവൽ 1 ൽ നിന്നും ലെവൽ 4 ലേക്ക് എത്തിക്കുക എന്നിട്ട് 4 ൽ നിന്നും 3 ലേക്കും 2 ൽ നിന്നും 1 ലേക്കും ഉള്ള ട്രാൻസിഷൻ വളരെ വേഗത്തിലും 3 ൽ നിന്നും 2 ലേക്കുള്ള ട്രാൻസിഷൻ വളരെ സാവധാനവും ആക്കുക അപ്പോൾ ആറ്റം ലെവൽ 4 ൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അത് ഉടനെ തന്നെ റേഡിയേറ്റ് ചെയ്ത് ലെവൽ 3 ൽ എത്തുന്നു അവിടെ നിന്നും അത് വളരെ സാവധാനം മാത്രമാണ് ലെവൽ 2 ലേക്കു പതിക്കുന്നത് അവിടെ എത്തിയ ഉടൻ അത് വളരെ വേഗത്തിൽ ലെവൽ 1 ലേക്ക് പതിക്കുന്നു അതുകൊണ്ടു തന്നെ എപ്പോഴും n3 n2 ആവാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഏതൊക്കെ ലെവലിലാണോ ശോഷണം വളരെ സാവധാനം നടക്കുന്നത് ആ ലെവലുകൾ ലൈറ്റ് ആംപ്ലിഫൈ ചെയ്യാനായി ഉപയോഗപ്പെടുത്താം അപ്പോൾ ഒരു മൂന്ന് ലെവലുള്ള സിസ്റ്റത്തിൽ 3 2 ശോഷണം വളരെ വേഗത്തിലും 2 1 ശോഷണം വളരെ സാവധാനവുമാണ് അപ്പോൾ 2 വിന്റേയും 1 ന്റെയും ഇടയിൽ ലേസർ ആക്ഷൻ ഉണ്ടാകുന്നു ഉല്പാദിക്കപ്പെടുന്ന ലേസറിന്റെ ഫ്രീക്വൻസി ലെവൽ 2 വിന്റേയും ലെവൽ 1 ന്റെയും എനർജി വ്യത്യാസത്തിന് അനുബന്ധമായുള്ളതായിരിക്കും ഒരു 4 ലെവൽ സിസ്റ്റത്തിൽ 4 3 ശോഷണവും 2 1 ശോഷണവും വളരെ വേഗത്തിലും 3 2 ശോഷണം വളരെ സാവധാനവുമായിരിക്കും അതുകൊണ്ടുതന്നെ ലേസർ ആക്ഷൻ 3 യുടെയും 2 വിന്റേയും ഇടയിലായിരിക്കും ലേസർ ഫ്രീക്വൻസി ഈ രണ്ടു ലെവലിന്റേയും എനർജി വ്യത്യാസത്തിന് അനുബന്ധമായുള്ളതായിരിക്കും ഇങ്ങനെയാണ് പോപുലേഷൻ ഇൻവെർഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പോപുലേഷൻ ഇൻവെർഷൻ എന്ന ഒരു പുതിയ വാക്ക് നിങ്ങൾ പഠിച്ചിരിക്കുന്നു ഈ അവസ്ഥ ഉണ്ടാക്കാനായി ഒരു 3 അല്ലെങ്കിൽ 4 എനർജി ലെവൽ സിസ്റ്റം ഉണ്ടായിരിക്കണം എന്നാൽ ഒരിക്കലും ഒരു 2 ലെവൽ സിസ്റ്റത്തിൽ ഏതു മാർഗം സ്വീകരിച്ചാലും പോപുലേഷൻ ഇൻവെർഷൻ ഉണ്ടാക്കാൻ സാധ്യമല്ല മുൻപുള്ള ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടു മിററുകൾക്കിടയിലുള്ള ഈ ക്യാവിറ്റിയിലാണ് പോപുലേഷൻ ഇൻവെർഷൻ വരുത്തിയിരിക്കുന്നത് പോപുലേഷൻ ഇൻവെർഷൻ ഉണ്ടായി എന്നതിനർത്ഥം n2 n1ln√σL എന്ന കണ്ടീഷൻ ഉണ്ടാക്കിയെടുത്തു എന്നാണ് ഇവിടെ L ക്യാവിറ്റിയുടെ നീളമാണ് ലൈറ്റ് ക്യാവിറ്റിയിൽ കൂടെ അങ്ങോട്ടുമിങ്ങോട്ടും സഞ്ചരിക്കുമ്പോൾ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നു അങ്ങനെ പുറത്തേക്കു വരുന്ന ലൈറ്റ് ആംപ്ലിഫൈ ചെയ്ത ലൈറ്റ് ആയിരിക്കും അതിനു ചില പ്രത്യേകതകൾ കൈവരികയും ചെയ്യുന്നു ഇവ എന്തൊക്കെയാണ് ഒന്നാമതായി ഇവിടെ രണ്ടു മിററും തമ്മിൽ പാരലൽ ആയി വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഉണ്ടാകുന്ന ലൈറ്റ് വളരെ ദിശാസൂചന അഥവാ ഡയരക്ഷനൽ ആയിരിക്കും ഇതര ദിശകളിലേക്ക് വരുന്ന ലൈറ്റ് അതിൽ തന്നെ നഷ്ടപ്പെടുന്നു ഇതുതന്നെയാണ് ഇവിടെ പുറത്തേക്ക് വരുന്ന ലൈറ്റിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള ലൈറ്റിനെ ആണ് നമ്മൾ ലേസർ എന്ന് വിളിച്ചത് ലേസർ എന്നാൽ ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ അങ്ങനെ ഒന്നാമത്തെ പ്രോപ്പർട്ടി 1 ലേസർ വളരെ അധികം ഡയരക്ഷനൽ ആണ് കാരണം ഒരേ ഡയരക്ഷനിൽ സഞ്ചരിക്കുന്ന ലൈറ്റ് ആണ് ഇവിടെ ആംപ്ലിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇത് ഏറ്റവുമധികം ഡയരക്ഷനൽ സ്വഭാവം കാണിക്കുന്നു ലേസറിന്റെ സ്പ്രെഡ് അഥവാ വ്യാപനം ഏറ്റവും മിനിമം ആയിരിക്കും വ്യാപനത്തിന്റെ പരിധി നിർണയിക്കുന്നത് ഡിഫ്റാക്ഷൻ ലിമിറ്റ് ആണ് അതായത് ലേസർ ഒരു ടോർച്ച് ലൈറ്റ് പോലെ പടരില്ല ഇവിടെ അതിന്റെ വ്യാപനം വളരെ വളരെ കുറച്ചു മാത്രമായിരിക്കും ലേസർ റേഡിയേഷൻ വളരെ അധികം കൊഹിറെന്റ് ആയിരിക്കും അതായത് തരംഗ മുഖത്തുള്ള അഥവാ വേവ് ഫ്രന്റ് ലുള്ള വ്യത്യസ്ത ബിന്ദുക്കളുടെ ഫേസ് തമ്മിലുള്ള ബന്ധം എപ്പോഴും സ്ഥിരമായിരിക്കും ഇതാണ് സ്പേഷ്യൽ കൊഹിറെൻസ് എന്ന് പറയുന്നത് അതുപോലെ വ്യത്യസ്ത സമയത്തുള്ള ഫേസ് തമ്മിലുള്ള ബന്ധം എപ്പോഴും സ്ഥിരമായിരിക്കും ഇതാണ് ടെംപറൽ കൊഹിറെൻസ് അങ്ങനെ ഈ മൂന്ന് പ്രത്യേകതകളും ലേസറിനെ സവിശേഷ പ്രകാശമാക്കി മാറ്റുന്നു ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഡിഫ്റാക്ഷൻ ലിമിറ്റ് θλd ആയിരിക്കും ഇത് മിനിമം ലിമിറ്റ് ആണ് ഇവിടെ d അപ്പേർച്ചർ ന്റെ വലുപ്പം 𝞴 എന്നത് തരംഗ ദൈർഘ്യം 𝜃 വ്യാപന ആംഗിൾ അപ്പോൾ 𝜃 ആയിരിക്കും ഡിഫ്രാക്ഷൻ ലിമിറ്റ് പരിമിതപ്പെടുത്തിയിട്ടുള്ള ലേസറിന്റെ സ്പ്രെഡ് അപ്പോൾ ലേസറിന് ഈ മിനിമം സ്പ്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഡയമീറ്റർ d ആയുള്ള ലേസർ ബീം എടുത്താൽ അതിന്റെ വ്യാപനം 𝜃 d ആയിരിക്കും മറ്റേതൊരു തരം ലൈറ്റിനും കൊഹിരെന്റ് അല്ലാത്തത് കാരണം ഇതിൽ കൂടുതൽ വ്യാപനം ഉണ്ടാകും ഇതൊക്കെയാണ് ലേസറിന്റെ പ്രധാന സ്വഭാവങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിക്കാം പോപ്പുലേഷൻ ഇൻവെർഷൻ ഉള്ള ഒരു മീഡിയത്തിൽ കൂടെ ലൈറ്റ് കടത്തിവിട്ട് സ്റ്റിമുലേറ്റഡ് എമിഷൻ സാധ്യമാക്കി ലൈറ്റിനെ ആംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും ക്രിട്ടിക്കൽ പോപ്പുലേഷൻ ഇൻവെർഷൻ ഡെൻസിറ്റി എന്നത് ആണ് ഇവിടെ L എന്നത് ക്യാവിറ്റിയുടെ നീളം ആണ് ഇപ്രകാരം പോപ്പുലേഷൻ ഇൻവെർഷൻ സാധ്യമാകുന്നത് 3 ലെവൽ അല്ലെങ്കിൽ 4 ലെവൽ സിസ്റ്റത്തിലാണ് ഒരിക്കലും ഒരു 2 ലെവൽ സിസ്റ്റത്തിൽ ഇത് സാധ്യമാവില്ല ഇങ്ങനെ ഉണ്ടാകുന്ന ലേസർ ചില പ്രത്യേക സ്വഭാവ വിശേഷത്തോടുകൂടി ഉള്ളതായിരിക്കും ഇവ എന്തൊക്കെയാണെന്ന് കൂടി എഴുതാം ലേസർ തീവ്രമായ ഡയരക്ഷനൽ സ്വഭാവമുള്ളതാണ് ലേസർ റേഡിയേഷൻ വളരെ അധികം കൊഹിറെന്റ് ആയിരിക്കും ലേസറിന്റെ സ്പ്രെഡ് അഥവാ വ്യാപനം ഏറ്റവും മിനിമം ആയിരിക്കും ഡിഫ്റാക്ഷൻ മിനിമം ആണ് ഈ സ്പ്രെഡ് നിർണയിക്കുന്നത് പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യം ലേസർ മോണോക്റോമാറ്റിക് ആയിരിക്കും അതായത് ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഉള്ള ലൈറ്റ് ആയിരിക്കും ഇവിടെ ട്രാൻസിഷൻ ഫ്രീക്വൻസിയ്ക് തത്തുല്യമായ ഫ്രീക്വൻസിയിൽ ആയിരിക്കും ലേസർ എമിഷൻ ഉണ്ടാവുന്നത് അല്പം സ്പ്രെഡ് ഉണ്ടാകുമെങ്കിലും ഇത് മറ്റേതൊരു ലൈറ്റിനെയും അപേക്ഷിച്ച് മോണോക്റോമാറ്റിക് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും ഇത്രയുമൊക്കെയാണ് ലേസറിന്റെ പ്രത്യേകതകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ലേസറിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് സംഗ്രഹിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം ഓർക്കാനുണ്ട് ലേസറിനെ കുറിച്ചുള്ള ഐഡിയ ഏകദേശം 1914 1915 ൽ തന്നെ നിർദേശിച്ചിരുന്നു എങ്കിലും ആദ്യമായി ലേസർ നിർമ്മിച്ചത് 1960 കളിലാണ് അതായത് ഇതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാൻ ഏകദേശം 50 വർഷങ്ങൾ എടുത്തു അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് തുടങ്ങാം അടുത്ത ആഴ്ചത്തെ ആദ്യത്തെ ക്ലാസ്സിൽ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറഞ്ഞു തുടങ്ങാം